എല്ലാവർക്കും സെൽ കൾച്ചർ ടെക്നോളജിയുടെ ആദ്യത്തെ ആഴ്ചയിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യത്തെ ക്ലാസ്സിൽ സെൽ കൾച്ചർ ടെക്നോളജിയെ ഒരു ടെക്നിക്കായ് മാത്രം കാണാതിരിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു അതിൻറെ എല്ലാ തലത്തിലും ഒരു ഫിലോസഫി ഉണ്ട് അതിനെ അന്ധമായി അനുകരിക്കരുത് അതിൽ ലളിതമായ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ഉണ്ട് അടുത്ത രണ്ട് ക്ലാസിൽ നമുക്ക് അ സെല്ലുകളുടെ ഇൻവിവോ ഇൻവിട്രോ അവസ്ഥയിൽ ഉള്ള ബയോളജിയെ പറ്റി പഠിക്കാം സെല്ലുകളുടെ ബയോളജിയെ പറ്റി മനസ്സിലാക്കിയാൽ ശരീരഘടനയോട് സമാനമായ അവസ്ഥ പുനഃസൃഷ്ടിക്കാൻ എളുപ്പമായിരിക്കും ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ആഴ്ചയിലെ മൂന്നാമത്തെ ക്ലാസ്സിൽ എത്തി ഇന്ന് നമ്മൾ ശരീരഘടനയുടെ പുറത്തുവെച്ച് സെല്ലുകളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ബയോളജിയെപ്പറ്റി സംസാരിക്കാം ഇതാണ് അടുത്ത കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് മനസ്സിലാക്കാനായി ഏതൊക്കെ അവസ്ഥയിലാണ് സെല്ലുകൾ ശരീരത്തിനകത്ത് വളരുന്നത് എന്ന് നോക്കാം ഇതിനായി മുൻപ് എടുത്ത ഒരു ഉദാഹരണം തന്നെ ഒന്നുകൂടി നോക്കാം ഒന്നുംകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് കാർഡിയാക് സെല്ലുകളെ എടുക്കാം ഇതാണ് പുറത്തു വളർത്തുന്ന കാർഡിയാക് സെല്ലുകൾ ഇത് ഞാൻ മുൻപ് വിവരിച്ചിട്ടുള്ളതാണ് പിന്നെ ഇതാണ് ഗ്യാപ് ജംഗ്ഷനുകൾ ഈ സെല്ലുകൾക്ക് ആദ്യം വേണ്ടത് ഓക്സിജനാണ് പിന്നെ അവർ കാർബൺഡയോക്സൈഡിനെ പുറത്തേക്ക് വിടുന്ന അതായത് അവിടെ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് ഉണ്ട് അതാണ് ആദ്യം വേണ്ടതും ഓക്സിജന്റെ അഭാവത്തിൽ അവിടെ അൺ എയറോബിക് അവസ്ഥ ഉണ്ടാവുകയും സെല്ലുകൾ മരിക്കുകയും ചെയ്യുന്നു അവർക്ക് ആവശ്യമായ അളവിൽ ഓക്സിജൻ അനിവാര്യമാണ് അതുപോലെതന്നെ അവിടെ ഉണ്ടാക്കപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും വേണം അല്ലെങ്കിൽ അവിടുത്തെ പരിസ്ഥിതി അസിഡിക്കായി മാറും എന്തുകൊണ്ടെന്നാൽ CO2 ഉം H2O യും ചേർന്ന് കാർബോണിക് ആസിഡ് ആയി മാറും ഇതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് ശരിയായ ഗ്യാസ് എക്സ്ചേഞ്ച് നടന്നില്ലെങ്കിൽ ഈ സെല്ലുകൾ വളരുകയും ഇല്ല അപ്പോൾ ഈ ടിഷ്യുവിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ശരിയായ അളവിലുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് നൽകേണ്ടത് അനിവാര്യമാണ് ഇതെങ്ങനെയാണ് ഈ ഗ്യാസ് എക്സ്ചേഞ്ച് പ്രശ്നം പുറത്തെ സിസ്റ്റത്തിൽ പരിഹരിക്കപ്പെടുന്നതെന്നാണ് ആദ്യത്തെ പാരാമീറ്റർ മുൻപത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു പ്രതലത്തിൽ സെല്ലുകൾ ചേർന്നിരിക്കാം രണ്ടുതരം സെല്ലുകളുണ്ട് അധെറിങ് സെല്ലുകളും നോൺ അധെറിങ് സെല്ലുകളും ഏതു സെല്ലുകളാണ് കൾച്ചർ ചെയ്യുന്നതെന്നതാണ് അടുത്ത പാരാമീറ്റർ അധെറിങ് സെല്ലുകളെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എൻറെ കൈകളിലെ ഈ സെല്ലുകളെല്ലാം പറ്റി ചേർന്നിരിക്കുകയാണ് നോൺഅധെറിങ് സെല്ലുകളെ പറ്റി പറയുമ്പോൾ ബ്ലഡ് സെല്ലുകൾ അവ നമ്മുടെ ശരീരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് എവിടെയെങ്കിലും പറ്റി ചേർന്നാൽ അതിൻറെ പ്രവർത്തിയായ ഓക്സിജൻ സപ്ലൈ നിന്നുപോകും നമ്മളിപ്പോൾ സംസാരിച്ചത് RBC റെഡ് ബ്ലഡ് സെല്ലുകളെ പറ്റിയാണ് ഇനി WBC പഠിക്കുമ്പോൾ അതായത് ലിമ്ഫോസൈറ്റീസ് ലുകോസൈറ്റീസ് മാക്രോഫേജ്സ് എന്നിവയാണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവയെ പറ്റിച്ചേർന്ന് വളരുവാനാണോ അതോ സസ്പെൻഷനിൽ ചലിക്കുവാനാണോ കൾച്ചർ ചെയ്യുന്നത് ഇതാണ് ഇതിലെ പ്രധാന പോയിൻറ് അതായത് ഇത് ഒരു ഹാർഡ് ടിഷ്യു ശരീരത്തിന് പുറത്ത് രക്തത്തിന് അഭിമുഖമായി വളർത്തുന്നുണ്ടെന്നു വിചാരിക്കുക ബ്ലഡ്ഡിൽ ധാരാളം നോൺ അധെറിങ് സെല്ലുകളുണ്ട് അത് ചലിച്ചു കൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് ഇതാണ് ആ സെല്ലുകൾ നമുക്ക് അതിൻറെ നിറം മാറ്റി നൽകാം അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ രഹസ്യമായി ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതെന്താണ് രഹസ്യമാക്കി വെയ്ക്കുന്നതെന്നും അതുകൊണ്ട് അതിൻറെ പരിസരത്തുള്ള സെല്ലുകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്നും നമുക്കറിയില്ല ഈ പിങ്ക് കളർ സെല്ലുകൾ അധെറിങ് സെല്ലുകളാണ് അതിനു മുകളിലൂടെ റെഡ് സെല്ലുകൾ ചലിക്കുന്നുണ്ട് അവ xyz കെമിക്കലുകൾ ഉണ്ടാക്കി അവയുടെ ബയോളജിയെ വരെ സ്വാധീനിക്കുന്നുണ്ടാവാം നമുക്കറിയില്ല ഈ ഘട്ടത്തിൽ അധെറിങ് സെല്ലുകളാണോ നോൺ അധെറിങ് സെല്ലുകളാണോ കൾച്ചർ ചെയ്യുന്നത് എന്നതാണ് പ്രധാനം നമ്മൾ ഇവിടെ അധെറിങ് സെല്ലുകളാണ് കൾച്ചർ ചെയ്യുന്നത് അതിനാൽ അതിനെപ്പറ്റി അധികം സംസാരിക്കാം ഇതാണ് ഞാൻ ആദ്യത്തെ രണ്ട് ക്ലാസുകളിൽ സൂചിപ്പിച്ച സങ്കീർണ്ണമായ വസ്തുത ഇപ്പോൾ ഞാൻ ഇതിനെ പറ്റി ഒന്നുകൂടി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു അധെറിങ് സെല്ലുകളെ പറ്റി പറയുമ്പോൾ അവയുടെ പ്രവർത്തന രീതിയെ പറ്റി പറയുമ്പോൾ അതിങ്ങനെയാണ് ഉദാഹരണത്തിന് എൻറെ കയ്യിൽ ഇങ്ങനെ ഒരു സെൽ ഉണ്ട് ഇവിടെ നമുക്ക് ഒരു ന്യൂക്ലിയോളസ് കാണാൻ സാധിക്കും അതിൽ DNA യും മറ്റു ഓർഗനെല്ലുകളും ഉണ്ട് മൈറ്റോകോൺഡ്രിയ യും എന്ടോപ്ലാസ്മിക് റെക്ടിക്യൂലവും ന്യൂക്ലിയസും ഉണ്ട് Mt എന്നാൽ മൈറ്റോകോൺഡ്രിയയാണ് അതുപോലെ PM എന്നാൽ പ്ലാസ്മാ മേംബ്രെൻ ആണ് ഈ സെല്ലുകളിൽ ധാരാളം മേംബ്രെൻ പ്രോട്ടീനുകളുണ്ട് ഈ സെല്ലുകൾക്ക് ഒരു പ്രതലത്തിൽ പറ്റി ചേരണമെങ്കിൽ അവ ചില സിമെന്റിങ് മെറ്റീരിയലുകൾ ഉണ്ടാക്കണം ഈ കാണുന്ന നീല ദിശാസൂചികൾ ഇവയെയാണ് സൂചിപ്പിക്കുന്നത് ഈ സിമെന്റിങ്മെറ്റീരിയലുകൾ സെല്ലുകളെ മറ്റൊരു സെല്ലുമായി കൂടിച്ചേരാൻ സഹായിക്കും അല്ലെങ്കിൽ GS ഗോൾഗി അപ്പാരറ്റസായോ മറ്റോ വീണ്ടും ഈ രണ്ടു സെല്ലുകൾ ഒരു കോളനിയായി മാറും അതായത് അവ മറ്റൊരു സെറ്റ് സെല്ലിനെ ഉണ്ടാക്കും പിന്നീട് മൂന്നാമത്തൊരു സെറ്റും ഉണ്ടാകും അത്തരത്തിൽ അവ പതുക്കെ ഒരു കോളനിയായി മാറും ഈ സെല്ലുകൾ കൂടി ചേർന്നിരിക്കാൻ ആയിട്ട് നീല നിറത്തിലുള്ള വസ്തുക്കൾ ഒരു മാട്രിക്സ് ആയി രൂപാന്തരപ്പെടും ഈ സെല്ലുകളെല്ലാം മാറ്റുകയാണെങ്കിൽ പിന്നീട് അവശേഷിക്കുക ഇവയാണ് ഈ നീല നിറത്തിലുള്ള ദിശാസൂചികളെ നമ്മൾ ടെക്നിക്കലായി എക്സ്ട്രാ സെല്ലുലാർ എന്ന് പറയുന്നു കാരണം അവ എക്സ്ട്രായാണ് അതായത് അത് സെല്ലിനകത്ത് അല്ല മറിച്ച് പുറത്താണ് കാണുന്നത് അത് പിന്നീട് ഒരു മാട്രിക്സ് ആയി രൂപാന്തരപ്പെടുന്നു ഈ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായും പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും മെറ്റൽ അയോണുകളും മറ്റു പല വസ്തുക്കളും കൊണ്ടാണ് ഈ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് സെല്ലുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ അവയാണ് സെല്ലുകളെ ഒരു നിശ്ചിത സ്ഥലത്ത് ഇരിക്കാൻ സഹായിക്കുന്നത് ഈ വസ്തുത എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് ക്യാന്സറിനെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാകും ഈ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് സെല്ലുകളുടെ കോളനിയെ സംബന്ധിച്ച് അവയുടെ കയ്യൊപ്പ് തന്നെയാണ് എന്താണ് ഈ കോളനി എന്ന് വെച്ചാൽ നമുക്ക് മുമ്പത്തെ ചിത്രത്തിലേക്ക് പോയി നോക്കാം ഇനി ഇതാണ് ഹൃദയത്തിൻറെ കോളനി പിന്നെ ഇതാണ് ബ്രെയിൻ ഇതാണ് ബ്രെയിൻ കോളനി ഇതാണ് ആമാശയത്തിത്തിന്റെ കോളനി കോളനിയുടെ ഉള്ളിൽ തന്നെ ചെറു കോളനികൾ ഉണ്ട് ഹൃദയത്തിൻറെ ഘടനയെ പറ്റി നോക്കിയാൽ ഏകദേശം ഇങ്ങനെയുണ്ടാകും ഹൃദയത്തിന് നാല് അറകളുണ്ട് ഇതാണ് മുകളിലത്തെ അറകൾ L എന്നാൽ ഇടത്തെ അറകളും R എന്നാൽ വലത്തെ അറകളുമാണ് UC എന്നാൽ മുകളിലെ ചേംബർ അഥവാ അറകളും LC എന്നാൽ എന്നാൽ താഴത്തെ ചേംബർ അഥവാ അറകളുമാണ് ഓരോ കോളനിയുടെ ഉള്ളിലും പലതരത്തിലുള്ള കോളനികൾ ഉണ്ട് അവ ഓരോന്നിലും പലതരത്തിലുള്ള സെല്ലുകളും ഉണ്ട് ഈ താഴെ കാണുന്ന ചേംബറുകളാണ് വെൻട്രിക്കിൾസ് അവയിൽ നമുക്ക് വെൻട്രികുലാർ സെല്ലുകൾ കാണാം പിന്നെ ഇതാണ് ഓരിക്കൽസ് ഇവയ്ക്കെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള സെല്ലുകളാണുള്ളത് ചെറിയ വ്യത്യാസത്തിൽ പലതരത്തിലുള്ള കോളനികൾ ഉണ്ടാകുന്നു ഓരോ കോളനികൾകും പലതരത്തിലുള്ള എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്കളാണ് ഉള്ളത് ചുരുക്കത്തിൽ ECM എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് എന്ന ബയോളജിക്കൽ പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല സെല്ലുകൾക്ക് ഈ സാഹചര്യങ്ങളിൽ വളരാൻ അനുയോജ്യമായ ഒരു സ്ഥാനം കണ്ടെത്തലാണ് ഇത് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്കളുടെ സവിശേഷമായ ഒരുകൈയൊപ്പാണ് ഇവിടെ തിരിച്ചു വരികയാണെങ്കിൽ ഈ സെല്ലുകളെ പുറത്തു വളർത്താൻ ആദ്യം തന്നെ നമ്മൾ ഇത്തരം സെല്ലുകളെ അനുകരിക്കേകേണ്ടിയിരിക്കുന്നു ഈ ഡിഷിൽ സെല്ലുകളെ പുറത്ത് വളർത്താൻ വേണ്ട ആദ്യത്തെ ആവശ്യകത ശരിയായ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ആണ് മുൻപ് കാണിച്ച മാതിരി എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്സുകളെ നീല നിറത്തിലാണ് ഇവിടെ ഞാൻ പ്രതിനിധീകരിക്കുന്നത് അതായത് ശരിയായ തരത്തിലുള്ള എക്സ്ട്രാ സെല്ലുലാർ പ്രോട്ടീനുകൾ ഉണ്ടാവണം ഇനി ഞാൻ ഈ പ്രോട്ടീനുകളെ പറ്റിയാണ് പറയുന്നത് ഒരു ഹൈപോതെസിസ് അല്ലെങ്കിൽ അവസ്ഥ സങ്കൽപ്പിക്കുകയാണ് എന്ന് വിചാരിക്കുക അതായത് ഈ നീല എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്സുകളെ ഞാൻ B എന്നു മാർക്ക് ചെയ്തു എൻറെ ഹൈപോതെസിസ് അനുസരിച്ച് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് B ഉള്ളപ്പോൾ P എന്ന കോമ്പൌണ്ട് ഇതിലേക്ക് നൽകി എന്ന് വിചാരിക്കുക കോമ്പൌണ്ട് P ഞാൻ ഇങ്ങനെയാണ് കാണിക്കുന്നത് ഇതിനു മുകളിൽ നിങ്ങൾ കാർഡിയാക് സെല്ലുകൾ വളർത്തുകയാണെങ്കിൽ അത് അവയുടെ സവിശേഷതകളെല്ലാം മാറ്റി പിന്നീട് മറ്റു സെല്ലുകളുമായി കൂടിച്ചേരാതെ ഇരിക്കും ഈ ഒരവസ്ഥയിൽ സെല്ലുകൾ കൂടിചേരുകയില്ല അവ അവിടെ നിന്ന് ചലിക്കുകയോ മറ്റൊരിടത്തേക്ക് നീങ്ങുകയോ ചെയ്യില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ കാണിച്ച ഘടനകൾ രൂപപ്പെടുകയുമില്ല അങ്ങനെ രൂപപ്പെടണമെങ്കിൽ ഞാൻ മുൻപ് ആദ്യത്തെയോ രണ്ടാമത്തെയോ ക്ലാസ്സിൽ കാണിച്ച പോലെ ആ സെല്ലുകൾ അടുത്തുവന്നു ഇലക്ട്രോ കെമിക്കൽ ആക്ടിവിറ്റികൾ പ്രകടിപ്പിക്കണം അവരൊരിക്കലും കൂടിചേരുകയില്ല നിങ്ങൾക്ക് ഈ P കോമ്പൌണ്ട് അവയുടെ ചലനത്തെ തടയുന്നുണ്ടെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിന് P ഒരു വിഷവസ്തുവാണ് എന്ന് വിചാരിക്കുക അവ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്സിൽ കൂടിച്ചേർന്ന് കാർഡിയാക് മയോസൈറ്റുകൾ അടുത്തുവരുന്നത് തടയുന്നു നമുക്ക് ഇതൊന്നു പരീക്ഷിച്ചു നോക്കാം നിങ്ങൾക്ക് ഇതിൻറെ അടിസ്ഥാനമറിയാമെങ്കിൽ ധാരാളം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാവും എന്നാൽ അടിസ്ഥാനം അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടെന്നാൽ പല ഡിഗ്രി വിദ്യാർഥികളും ഇതിനുപിന്നിലെ പ്രാധാന്യവും അതിലെ കെമിസ്ട്രിയും ബയോളജിയും മറ്റു ലോജിക്കുക്കളും മറ്റും മനസ്സിലാക്കാതെ എന്തൊക്കെയോ മിക്സ് ചെയ്തു കൊണ്ടാണ് കൾച്ചർ ഡിഷുകളിൽ കൾച്ചർ ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് അത് ലോജിക്കലായി നടക്കാത്തതും ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ ഇതിനുള്ളിലേക്ക് ഇറങ്ങി ഈ വസ്തുതകളെല്ലാം മനസ്സിലാക്കി എടുക്കേണ്ടതിൻറെ പ്രാധാന്യം എന്താണെന്ന് തിരിച്ചറിയണം അതായത് അത് മുൻകൂട്ടി കാണാൻ തുടങ്ങണം ഇതാണ് നാച്ചുറൽ ECM ഇവയിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനുമാണ് അടങ്ങിയിരിക്കുന്നത് ഇതുകൂടാതെ കൃത്രിമമായ അല്ലെങ്കിൽ സിന്തറ്റിക്കായ മോളിക്യൂളുകൾ ഉണ്ട് അവ നാച്ചുറലായ ECM ന്നെ അതേപടി അനുകരിക്കും ഈ സിന്തറ്റിക് പ്രതിരൂപത്തെ പറ്റി പറയുമ്പോൾ അവ നാച്ചുറലായവയുടെ ബയോളജിക്കൽ പ്രതിരൂപമായിരിക്കണം ഈ സിന്തറ്റിക് ആയ വസ്തുക്കൾ ഓർഗാനിക്കും ഇൻ ഓർഗാനിക്കുമാകാം എന്നാൽ അവ ഉണ്ടാകണമെങ്കിൽ അവയ്ക്ക് പിന്നിലെ കെമിസ്ട്രിയും ബയോളജിയും അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടെന്നാൽ ഈ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്മായി ബന്ധപ്പെട്ട രസകരമായ ഒരു വസ്തുതയുണ്ട് ഇതിലേക്ക് നമുക്ക് പുറകെ വരാം അപ്പോൾ ക്യാൻസർ സെല്ലുകളെ പറ്റി പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ കാൻസർ സെല്ലുകൾ അവ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെയാണോ ഉൽഭവിക്കുന്നത് ഉദാഹരണത്തിന് നമുക്കൊരു കോളനിയെ പറ്റി പറയാം അതിനായി നമ്മുക്കത് വരയ്ക്കാം നമ്മുടെ ശരീരത്തിരത്തെ തന്നെ ഒരു കോളനിയായി കാണാം ഇവിടെ നീല കോളനി ഉണ്ട് പച്ച കോളനി ഉണ്ട് പിങ്ക് ഓറഞ്ച് തുടങ്ങി ഒത്തിരി കോളനികകളുണ്ട് ഇവയ്ക്കെല്ലാം അവയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന പലതരം സെല്ലുകളും ഉണ്ട് ഈ മുഴുവൻ സിസ്റ്റവും പരസ്പര ബന്ധിതമാണ് അവ രക്തക്കുഴലുകളും മറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ മുഴുവൻ സിസ്റ്റവും ഐക്യത്തോടെയാണ് മുന്നോട്ടുപോകുന്നത് ഇത് സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്ന ഒരു കുടുംബമാണ് എന്നാൽ ഈ കോളനിയിൽ ഒരു വികൃതികുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക ആ കുട്ടി കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കാൻ തീരുമാനിച്ചു അത് ഈ കോളനിയിൽ നിന്ന് പുറത്തുകടന്ന് സഞ്ചരിച്ചു ഈ ECM കോളനികളുടെ ബാർകോഡാണ് എല്ലായിടത്തും പല പല ECM ആണ് അതുകൊണ്ട് ഓരോ കോളനിക്കും ഓരോ ബാർകോഡ് ആണുള്ളത് ഈ ബാർകോഡ് ആണ് തീരുമാനിക്കുക ആ സെല്ലുകൾ ശരീരത്തിൻറെ ഏത് ഭാഗമായിട്ടാണ് വളരേണ്ടതെന്ന് എന്നാൽ ഇവിടെ ആ വികൃതിക്കുട്ടി ബാർ കോഡിനെ പറ്റിക്കാൻ തീരുമാനിച്ചു അതെവിടെ വേണമെങ്കിലും പോവുകയും എല്ലായിടത്തും അതിക്രമിച്ചു കയറുകയും ചെയ്യുന്നു അതിനു കാരണം ഇപ്പോഴത് ഒരു സസ്പെൻഡ്ഡ് സെൽ ആണ് എവിടെ വേണമെങ്കിലും പോവാം ബാർകോഡ് ഇല്ല അത് തീരുമാനിക്കുന്നത് പോലെ അവിടെയുമിവിടെയും പോയി പ്രശ്നങ്ങളുണ്ടാക്കുന്നു ആ ഒരൊറ്റ വികൃതിക്കുട്ടി കാരണം മൊത്തം സിസ്റ്റത്തിന്റെ ഐക്യമാണ് തകരുന്നത് ഇതുതന്നെയാണ് കാൻസർ സെല്ലുകളിലും സംഭവിക്കുന്നത് അത് ഒരു സെൽ കോളനിയുടെ ഭാഗമാകാതെ ബാർകോഡ് ചതിച്ചു കൊണ്ട് വളരുന്നുഅതായത് അത് ചുവന്ന കോളനിയിൽ നിന്ന് പുറത്തുചാടി പിങ്ക് കോളനിയോ പച്ച കോളനിയോ ആയി മാറുന്നു അങ്ങനെ അത് മൊത്തം പരക്കുന്നു ഇതിനു കാരണം ആ സെല്ലുകൾക്ക് ഒരു നിശ്ചിത ബാർകോഡ് ഇല്ലാത്തതാണ് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്സുകളുടെ ബയോളജിയെ പറ്റി വീണ്ടും വീണ്ടും പറയുന്നത് അത് അത്രയും പ്രധാനമാണ് നിങ്ങൾ അടുത്ത തലമുറയിലെ ശാസ്ത്രജ്ഞരാണ് അതുകൊണ്ട് കാര്യങ്ങളെ അന്ധമായി അനുകരിക്കരുത് എല്ലാത്തിനും പിന്നിൽ ഒരു കെമിസ്ട്രിയുണ്ട് അത് അറിയാതെ ബയോളജിക്ക് നിലനിൽപ്പില്ല എല്ലാത്തിനും പിന്നിൽ അടിസ്ഥാനപരമായ കെമിസ്ട്രിയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ചിന്തിക്കുക ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആളുകൾ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്സുകൾ പുരട്ടിയ ടിഷുകൾ വാങ്ങുന്നത് അതിൽ എന്തെങ്കിലും സെല്ലുകൾ വളരുമായിരിക്കും എന്നാൽ അതല്ല ശരിയായ രീതി ഇതല്ല സയൻസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രീതി നമ്മൾ അതിൻറെ അടിസ്ഥാനം അറിഞ്ഞിരിക്കണം എന്താണ് സംഭവിക്കുന്നത് ഞാൻ ഇതു മാറ്റിയാൽ എന്താണ് ഉണ്ടാവുക ഞാനീ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് മാറ്റിയാൽ എന്താണ് ഉണ്ടാവുക ഇതേ മാട്രിക്സ്സിൽ ചെറിയ ഫിസിക്കൽ പാരാമീറ്ററുകൾ മാറ്റിയാൽ സെല്ലിന്റെ പെരുമാറ്റത്തിൽ എന്താണ് മാറ്റമുണ്ടാവുക ഇത്തരത്തിൽ സെല്ലുകൾക്ക് അവയുടെ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് അല്ലെങ്കിൽ ബാർകോഡ് കൈമോശം വന്നു പോകുമ്പോൾ അവ ക്യാൻസർ ആയി മാറും ബയോളജി പശ്ചാത്തലം ഇല്ലാത്തവർക്കായി ഇങ്ങനെ പറയാം അതായത് ECM അഥവാ ബാർകോഡ് നഷ്ടപ്പെട്ട സെല്ലുകൾ ആരെ വേണമെങ്കിലും ചതിക്കാം ശരീരത്തിൽ എവിടെ വേണമെങ്കിലും അതിക്രമിച്ചു കയറി വളരാം എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് രണ്ടാമതായി ECM അവയുടെ പ്രവർത്തിയെ പറ്റി പറയണം അടുത്ത ക്ലാസ്സിൽ B സെല്ലുകളുടെ ബയോളജിയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം നമ്മൾ ഗ്യാസ്എക്സ്ചേഞ്ച്നെ പറ്റിയും അവയെ അനുകരിക്കേണ്ടതിനെപ്പറ്റിയും പറഞ്ഞിരുന്നു അതുപോലെ ECM അനുകരണത്തെ പറ്റി കൂടുതൽ അടുത്ത ക്ലാസ്സിൽ പറയാം